ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സിനെക്കുറിച്ചുള്ള നമ്മുടെ അവസാന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോഴ്സിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ഈ പ്രത്യേക മേഖലയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ സാധ്യമായ ഓപ്പണിംഗുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന ഗവേഷണ ദിശകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ദ്രുത അവലോകനം നൽകും അതിനാൽ ഈ പ്രത്യേക കോഴ്സിൽ നാമെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ചില വിഷയങ്ങളെക്കുറിച്ചോ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ വ്യത്യസ്ത സവിശേഷതകൾ എന്തൊക്കെയാണ് വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണ് സാങ്കേതികവിദ്യയിൽ ഏത് സേവനമാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് എന്നൊക്കെ പരിശോധിക്കാൻ നമ്മൾ ശ്രമിച്ചു അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൻറെ അടിസ്ഥാന ആമുഖം അടിസ്ഥാന NIST നിർവചനത്തോടുകൂടി ആരംഭിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഇത് ഒരു സേവനമെന്ന നിലയിൽ നമ്മൾ ഊന്നിപ്പറയുകയും ചെയ്തു അതിനാൽ അത്തരം കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാന സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തു അതിൻറെ ഗുണങ്ങളും ദോഷങ്ങളും കാണാൻ ശ്രമിച്ചു അത് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വന്ന ഒരു പുതിയ സാങ്കേതികവിദ്യയല്ലെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു അതിനാൽ ഒരു പരിണാമ പ്രക്രിയയുണ്ട് ഞങ്ങൾ ആരംഭിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനായി നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടട്ട് കമ്പ്യൂട്ടിംഗ് എന്നീ വാക്യങ്ങളിലൂടെ കടന്നുപോയതുപോലെ ഒടുവിൽ ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലേക്ക് വന്നു നമ്മൾ കണ്ടതുപോലെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാന സൌന്ദര്യമോ അടിസ്ഥാന സവിശേഷതകളോ ആണ് ഇതിനെ വൈദ്യുതി വെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലുള്ള ഒരു യൂട്ടിലിറ്റി സേവനങ്ങൾ പോലെ ഒരു യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത് നിങ്ങൾ മോഡലിലേക്ക് പോകുമ്പോൾ അടിസ്ഥാനപരമായി പ്രതിഫലം നൽകേണ്ടിവരും ഇത് ഒരു മീറ്റർ ചെയ്ത സേവനമാണ് അളക്കാവുന്ന സേവനമാണ് നിങ്ങൾക്ക് അനന്തമായ സ്കെയിലിംഗിലേക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയും മറ്റൊന്ന് അടിസ്ഥാനപരമായി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പരിപാലിക്കേണ്ടതില്ല എന്നതാണ് അതിനാൽ കാര്യവുമായി ഒത്തുചേർന്ന് എവിടെയെങ്കിലും കമ്പ്യൂട്ടിംഗ് ആരംഭിക്കാൻ നിങ്ങൾക്ക് കഴിയും അടിസ്ഥാന ആർക്കിടെക്ചറും അടിസ്ഥാന ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ആയി പ്രകടിപ്പിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ചട്ടക്കൂടിൽ ഇത് സാധ്യമാണ് അതിനാൽ സ്ലൈഡിൽ ഇത് വ്യക്തമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും അടിസ്ഥാനപരമായി അടിസ്ഥാന സേവനങ്ങളായ സേവനാധിഷ്ഠിത ആർക്കിടെക്ചർ ആർക്കിടെക്ചറിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു സ്തംഭം എന്ന് നമുക്ക് പറയാൻ കഴിയും സേവന മാനേജ്മെന്റിന്റെ ചില വശങ്ങൾ പ്രാഥമികമായി സേവന ലെവൽ കരാറുകളുമായി ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ നമ്മൾ കണ്ടു എസ് എൽ എ കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്തെന്നാൽ ഒരു അയഞ്ഞ ബന്ധത്തിലുള്ള വൈവിധ്യമാർന്ന സേവനങ്ങൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഈ സേവന ചട്ടക്കൂട് ശരിയായി സാക്ഷാത്കരിക്കുന്നതിൽ ഈ സേവന ലെവൽ കരാറുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നമുക്ക് ശക്തമായ സേവന ലെവൽ കരാറില്ലെങ്കിൽ ഉചിതമായ സേവനങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ആരെങ്കിലും ക്ലൌഡ് നിയന്ത്രിക്കുമ്പോൾ അത് ഒരു ഓർഗനൈസേഷനോ വ്യക്തിയോ ക്ലൌഡിൽ നിന്ന് ഒരുതരം വിശ്വാസ്യത പ്രതീക്ഷിക്കുന്നു ഒരു ലാബ് പ്രവർത്തിപ്പിക്കുന്നതിനായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഞാൻ അത് എടുക്കുന്നതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റത്തെ ഔട്ട്സോഴ്സിംഗ് ക്ലൌഡിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ വിശ്വസ്തമായ ഒരു സമയമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഒരു പ്രത്യേക തലത്തിലുള്ളതാണെന്ന് ഞാൻ 99 ശതമാനം പറയുന്നു 99 9 ശതമാനവും ക്ലൌഡിനെ പിന്തുണയ്ക്കും ഒരു ബാങ്ക് അല്ലെങ്കിൽ സമാനമായ സാമ്പത്തിക അല്ലെങ്കിൽ ചില പ്രതിരോധ അല്ലെങ്കിൽ ദുരന്തനിവാരണ മാനേജ്മെൻറ് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ പോലുള്ള കൂടുതൽ ഗുരുതരമായ പ്രവർത്തനങ്ങൾ കാണുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടത് കൂടുതൽ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് കൂടുതൽ ഉയർന്ന തലത്തിലുള്ള ലഭ്യതയാണ് ഒപ്പം കാര്യങ്ങളിൽ വിശ്വാസ്യതയും അതിനാൽ ഞാൻ നൽകുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ച സേവനങ്ങൾ എനിക്ക് ലഭിക്കുന്നുവെന്ന് എങ്ങനെ ബന്ധിപ്പിക്കും അതിനാൽ നമുക്ക് ശക്തമായ SLA കൾ ആവശ്യമാണ് പ്രത്യേകിച്ചും എല്ലാ ക്ലൌഡ് സേവന ദാതാക്കളും ഈ വാണിജ്യ ദാതാക്കൾ ഒരു SLA ഫോർമാറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും ഫോർമാറ്റുകളും കാര്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഇത് നമ്മുടെ ക്ലൌഡ് സേവനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ ക്ലൌഡിലെ ക്ലൌഡോണമിക്സ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം ആ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ക്ലൌഡൊണമിക്സ് പ്രത്യേകിച്ചും ക്ലൌഡിലെ സമ്പദ്വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു ക്ലൌഡ് പോലും സാമ്പത്തികമായി പ്രയോജനകരമായേക്കാവുന്ന മറ്റ് വശങ്ങളുണ്ടാകാം ഐഐടി ഖരഗ്പൂർ എനിക്ക് ലാബുകൾ ക്ലൌഡിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാം പക്ഷേ സുരക്ഷാ പരിമിതി പോലുള്ളവ എല്ലാ ഡാറ്റയും ക്ലൌഡിലേക്ക് വലിച്ചെറിയാൻ എന്റെ സ്വകാര്യത എന്നെ അനുവദിച്ചേക്കില്ല ഞാൻ എന്റെ വിദ്യാർത്ഥി ഡാറ്റ ജീവനക്കാരുടെ ഡാറ്റ ക്ലൌഡിൽ ഇടാൻ പാടില്ല കാരണം ഇത് മൂന്നാം കക്ഷിയുടെ ഡൊമെയ്നിലാണ് അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രവർത്തിക്കുന്നു എന്നത് മാത്രമല്ല പണത്തിന്റെ കാര്യത്തിൽ ഇത് സാമ്പത്തികമാണ് ക്ലൌഡിൽ ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകണം എന്നത് ഓർഗനൈസേഷൻ നയം അനുസരിച്ചായിരിക്കണം അതിനാൽ ഒരിക്കലും കുറവല്ല ക്ലൌഡിനായി എപ്പോൾ പോകണമെന്നും എപ്പോൾ ഇൻ ഹൌസ് കാര്യങ്ങൾ സ്വീകരിക്കണമെന്നും തീരുമാനിക്കാൻ ക്ലൌഡ് ഇക്കണോമിക്സിന് ഒരു പ്രധാന പങ്കുണ്ട് ക്ലൌഡ് റിസോഴ്സ് മാനേജുമെന്റിനെക്കുറിച്ച് ഒന്നോ രണ്ടോ പ്രഭാഷണങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തതായി ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ക്ലൌഡിലെ ശരിയായ റിസോഴ്സ് മാനേജുമെന്റ് ദാതാക്കളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഉള്ളത് പ്രത്യേകിച്ചും ചിലപ്പോൾ ഇത് ഉപഭോക്തൃ അറ്റത്ത് നിന്നുള്ളതാണ് പക്ഷേ റിസോഴ്സ് മാനേജ്മെന്റിന് ഒരിക്കലും കുറവല്ല ദാതാവിന്റെ അർത്ഥത്തിൽ നിന്നുള്ള വിഭവ മാനേജുമെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്റെ ബാക്കെൻഡായി എനിക്ക് അനന്തമായ വിഭവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ എന്നാൽ ഇത് സ്പഷ്ടമാണ് കാര്യങ്ങളുടെ ഒരു പരിമിതി ഇല്ലെന്ന് എനിക്ക് പറയാനാവില്ല മാത്രമല്ല റിസോഴ്സസ് മറ്റ് തരത്തിലുള്ള ഊർജ്ജവും ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഒരുതരം ഉപഭോഗവും മറ്റും പിന്നിലേക്ക് മടങ്ങുന്നു എനിക്ക് അവയിൽ പലതും നൽകാൻ കഴിയും വിഭവങ്ങൾ പരിപാലിക്കുന്നതിന് സ്ഥിരമായ ഒരു രീതിയില്ല എനിക്ക് കാര്യങ്ങളിൽ വളരെയധികം ഊർജ്ജം ആവശ്യമാണ് അതിനാൽ ഉചിതമായ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം മൊത്തത്തിൽ ഇത് സേവന ദാതാവിന്റെ ലാഭത്തിന്റെ കാര്യത്തിൽ പ്രയോജനകരമാണ് ഇത് നമ്മുടെ പരിസ്ഥിതിയെ പ്രതികൂലമാക്കുകയോ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല ഈ ഉചിതമായ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മാത്രമല്ല സമകാലിക അവലോകനം ചെയ്ത ജേണലുകളിലോ ഉയർന്ന തലത്തിലുള്ള കോൺഫറൻസുകളിലോ ഉള്ള സാഹിത്യമോ സമീപകാല കൃതികളോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലായ്പ്പോഴും അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ ക്ലൌഡ് മാനേജുമെന്റ് അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ലൌഡിൽ ഡാറ്റാ മാനേജുമെന്റ് നമ്മൾ കണ്ടു ഇത് വളരെ ശ്രമകരമായ പ്രശ്നമാണ് അവസാനമായി ഡാറ്റ ക്ലൌഡിലായിരിക്കുമ്പോഴെല്ലാം അത് നിങ്ങളുടെ ഡാറ്റയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഡാറ്റ ഒരു മൂന്നാം കക്ഷിയിലാണ് അതിനാൽ ഡാറ്റയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പുറമെ തീർച്ചയായും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് ആ ഡാറ്റ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തുസംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഡേറ്റയിൽ വേഗത്തിൽ വളരാൻ കഴിയുമെങ്കിൽ ഡേറ്റയുടെ സ്കേലബിളിറ്റിയെക്കുറിച്ചോ എനിക്കില്ല അതിനാൽ ഡാറ്റ മാനേജുമെന്റിന്റെ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഗൂഗിൾ ഫയൽ സിസ്റ്റം നമ്മൾ കണ്ടത് ആപ്ലിക്കേഷൻ പോളിസികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഈ വലിയ ഡാറ്റായുടെ കാര്യം എങ്ങനെ പരിപാലിക്കുന്നുവെന്നും ആണ് ഈ ഡാറ്റാ മാനേജുമെന്റുമായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം സ്ഥിരമായി വരുന്നു എന്നത് മാത്രമല്ല വലിയ ഡാറ്റാ മാനേജുമെന്റ് ഈ വലിയ ഡാറ്റ എങ്ങനെ ക്ലൌഡിൽ കൈകാര്യം ചെയ്യാമെന്നതാണ് അതിനാൽ മാപ്പ് പോലുള്ള മറ്റ് സാങ്കേതികവിദ്യകൾ ഈ പ്രവർത്തനങ്ങളെ തളർത്താനും ചെയ്യാനും മികച്ച കാര്യക്ഷമത കൈവരിക്കാനും ക്ലൌഡിൽ ഒരു പ്രത്യേക സൃഷ്ടി പ്രോസസ്സ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള സാങ്കേതികവിദ്യകൾ കുറയ്ക്കുന്നതായി നമ്മൾ കണ്ടു അതിനാൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഇത് വളരെ രസകരമായ ഒരു മേഖലയാണ് അതിനാൽ തീർച്ചയായും ക്ലൌഡിലെ ഒരു പ്രധാന ആശങ്ക ക്ലൌഡ് സുരക്ഷിതമാണോ എന്നതാണ് ക്ലൌഡ് സെക്യൂരിറ്റികളുടെ ചില വശങ്ങൾ പരിശോധിക്കാനും നമ്മൾ ശ്രമിച്ചു കാര്യങ്ങളിലെ സമീപകാല ട്രെൻഡുകൾ കാണിക്കാനും ശ്രമിച്ചു 3 4 എന്നീ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഇവ ചർച്ചചെയ്തിട്ടുണ്ട് അതിനാൽ ഐഡന്റിറ്റി ആക്സസ് മാനേജ്മെന്റ് ആക്സസ് കൺട്രോൾ മെക്കാനിസം തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് അത് റോൾ അധിഷ്ഠിത ആക്സസ്സ് നിയന്ത്രണമോ ആക്സസ്സ് നിയന്ത്രണത്തിന്റെയും കാര്യങ്ങളുടെയും അപകടസാധ്യതയുടെ അടിസ്ഥാനമായിരിക്കണമോ എന്ന് വിശ്വാസം പ്രശസ്തി അപകടസാധ്യത നേരിടാനുള്ള കഴിവ് കാര്യങ്ങളുടെ തരം എന്നിങ്ങനെ വ്യത്യസ്ത വശങ്ങളുണ്ട് അതിനാൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യാം എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്ത് എങ്ങനെ ഒരു കോൾ മൂന്നാം കക്ഷി വശങ്ങളിലാണ് തുടർന്ന് ഈ മൊത്തത്തിലുള്ള കീ മാനേജുമെന്റ് വശങ്ങൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കും അതിനാൽ ഇത് വളരെ ശക്തമായ ഒരു മേഖല കൂടിയാണ് കാരണം കൂടുതൽ ഓർഗനൈസേഷനുകൾ ക്ലൌഡിലെ സേവനങ്ങൾ എന്നിവയിലേക്ക് തള്ളിവിടുന്നു അതിനാൽ ഈ സുരക്ഷ എങ്ങനെ പരിപാലിക്കുന്നു അല്ലെങ്കിൽ ഈ ഡാറ്റ സുരക്ഷ എങ്ങനെ ഉറപ്പുനൽകുന്നു എന്നത് ഒരു പ്രധാന ഉറവിടമായി മാറുന്നു നമ്മൾ കണ്ടതുപോലെ നമ്മുടെ രാജ്യത്തും ഇപ്പോൾ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ച്ചർ ഉപയോഗിച്ച് നിരവധി പ്രധാന മത്സര പരീക്ഷകൾ നടക്കുന്നു ഇപ്പോൾ ഈ ചോദ്യപേപ്പർ എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുകയും സുരക്ഷിതമായി കൈമാറുകയും ചെയ്യുന്നത് കൂടാതെ മൂന്നാം കക്ഷിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡാറ്റ ചോർന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന് അതിനാൽ അവിടെ ധാരാളം പഠനങ്ങൾ ആവശ്യമുണ്ട് ഇത് ഗവേഷണ മേഖലകളിലെ ഒരു പ്രധാന മേഖലയാണെന്നും ക്ലൌഡിലെ നമ്മളുടെ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ പറയുന്ന ഏറ്റവും മികച്ചതാണെന്നും നമ്മൾ കണ്ടു കൂടാതെ എല്ലാം മറയ്ക്കാൻ സാധ്യമല്ലെങ്കിലും ചില ഓപ്പൺ സോഴ്സിനെ തുടങ്ങി നിരവധി ഓപ്പൺ കൊമേഴ്സ്യൽ ക്ലൌഡ് കൾ ഉണ്ട് ചില ഉദാഹരണ കേസുകൾ കാണിക്കാൻ നമ്മൾ ശ്രമിച്ചു അതിനാൽ കാര്യങ്ങളെക്കുറിച്ച് വേഗത്തിൽ അറിയുന്നതിനും കാര്യങ്ങളിൽ ഒരു ഭാവം പുലർത്തുന്നതിനും ഇത് അവസരമൊരുക്കും അടിസ്ഥാന ആശയം കാര്യങ്ങളെക്കുറിച്ച് ഒരു തോന്നൽ ഉണ്ടായിരിക്കുക അവസാനമായി കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ട ചില സാങ്കേതികവിദ്യകളെക്കുറിച്ചും ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനോടൊപ്പമുള്ള ചെയ്യുന്നതിനുള്ള അവസരം നമുക്ക് ലഭിക്കും അതിനാൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ താഴ്ന്ന നിലയിൽ ചില പ്രവർത്തനങ്ങൾ നടത്താത്തത് തുടർന്ന് നമുക്ക് കാര്യങ്ങൾക്കായി ഫലം നൽകാൻ കഴിയും ക്ലൌഡിലേക്ക് കണക്റ്റുചെയ്യാൻ ആവശ്യമായ ബാൻഡ്വിഡ്ത്ത് കുറയ്ക്കുന്നതിന് മാത്രമല്ല ഇത് ഒരു പ്രാദേശിക കാര്യത്തിൽ ചെയ്യാവുന്ന ചില പ്രാദേശിക തീരുമാനങ്ങൾക്കും സഹായിക്കും നമുക്ക് അടിസ്ഥാനപരമായി അത് നേടാൻ കഴിയും കൂടുതൽ വിശ്വസ്തതയോടെ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തത്സമയ ആപ്ലിക്കേഷൻ കൂടുതൽ ഉദ്ധരിക്കാനും ഉദ്ധരിക്കാനും ഇത് നമ്മളെ സഹായിക്കും അതിനാൽ ചില വശങ്ങൾ സെൻസർ നെറ്റ്വർക്കിനെക്കുറിച്ചും സെൻസർ ക്ലൌഡിനെക്കുറിച്ചും കാണാൻ നമ്മൾ ശ്രമിച്ചു കാരണം ഈ ദിവസങ്ങളിൽ സെൻസറുകൾ സർവ്വവ്യാപിയാണ് അതിനാൽ ഒരു സെൻസർ ക്ലൌഡിന്റെ രൂപീകരണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പ്രത്യേകമായി ഡോക്കർ സാങ്കേതികവിദ്യയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഈ ക്ലൌഡും ഈ കണ്ടെയ്നർ സാങ്കേതികവിദ്യകളും എങ്ങനെയാണ് ഈ ഗ്രീൻ ക്ലൌഡ് അല്ലെങ്കിൽ ഊർജ്ജ മാനേജുമെന്റിന്റെ കാര്യത്തിലെന്നപോലെ ക്ലൌഡിന്റെ റിസോഴ്സ് മാനേജുമെന്റ് അവിടെ ഉണ്ടാകും അതിനാൽ നമ്മൾ ശ്രമിച്ച ചില കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളും നിങ്ങളുടെ ഭാവി ഗവേഷണ ദിശകൾ കണ്ടെത്താൻ സഹായിക്കും ഇപ്പോൾ ഞാൻ ഈ കോഴ്സിൽ ചെയ്യാൻ ശ്രമിച്ചത് അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത വഴികൾ തുറക്കുക എന്നതാണ് അതിനാൽ ഈ ഹ്രസ്വ കാലയളവിനുള്ളിൽ തന്നെ എല്ലാം വിശദമായി ചർച്ചചെയ്യാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ തീർച്ചയായും ധാരാളം അവസരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കാണുന്നു ഇപ്പോൾ ഈ പശ്ചാത്തലങ്ങളുമായി ഞാൻ ചർച്ചചെയ്യാം ഇൻറർനെറ്റിൽ നിങ്ങൾ കണ്ടെത്തിയേക്കാവുന്ന ക്ലൌഡിലെ ചില ഗവേഷണ മേഖലകളെക്കുറിച്ച് ചർച്ചചെയ്യാം ഞാൻ ഇൻറർനെറ്റിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി അതിനാൽ ഈ കാര്യങ്ങളിൽ ചിലത് ചർച്ചചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ തീർച്ചയായും നമ്മൾ കോഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഇൻഫ്രാസ്ട്രക്ചറും സേവനങ്ങളും ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ സ്റ്റോറേജ് ഡാറ്റ ആർക്കിടെക്ചർ ഡിസ്ട്രിബ്യൂട്ടട്ട് ക്ലൌഡ് നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജികൾ എന്നിവ പോലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ഭാഗങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മാത്രമല്ല ഇത് ഹാർഡ്വെയറും മറ്റ് അനുബന്ധ സാങ്കേതികവിദ്യകളും വരാനിരിക്കുന്ന സാങ്കേതികവിദ്യകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് ഒരിക്കലും സാച്ചുറേഷൻ ഫീൽഡല്ല കാര്യങ്ങളിൽ സംഭാവന നൽകാനും അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ബുദ്ധിപരവും അർത്ഥവത്തായതുമാക്കി മാറ്റാനും എല്ലായ്പ്പോഴും സാധ്യതയുണ്ട് ഇവ കൂടാതെ ഐഎഎഎസ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ഫിസിക്കൽ നെറ്റ്വർക്ക് നൽകുന്നതിനുപകരം എനിക്ക് വേണ്ടത് ഒരു സേവന തരമായി ഒരു നെറ്റ്വർക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സേവനമെന്ന നിലയിൽ വിവരങ്ങൾ പോലുള്ള മറ്റ് തരത്തിലുള്ള സേവനങ്ങളും ഉണ്ടാകാം അതിനാൽ ഒരു സേവനമെന്ന നിലയിൽ വിവരങ്ങൾ ആക്സസ്സുചെയ്യുന്നു ആളുകൾ ശാസ്ത്രം പോലുള്ള ആശയങ്ങളെ ഒരു സേവനമായും തരമായും സംസാരിക്കുന്നു ശരിയാണ് അതിനാൽ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സേവനങ്ങളുടെയും മേഖലയിൽ ഗവേഷണ പഠനത്തിനും ഉന്നത പഠന തരത്തിനും ധാരാളം അവസരങ്ങളുണ്ട് അതിനാൽ ഇത് ഒരു പ്രധാന കോർ ഫീൽഡാണ് തീർച്ചയായും മാനേജുമെന്റ് പ്രവർത്തനവും നിരീക്ഷണവും മറ്റൊരു രസകരമായ മേഖല അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലയാണ് അതിനാൽ സേവനങ്ങൾ തമ്മിലുള്ള ക്ലൌഡ് കോമ്പോസിഷൻ സേവന ഓർക്കസ്ട്രേഷൻ ക്ലൌഡ് ഫെഡറേഷൻ ബസ്റ്റിംഗ് ക്ലൌഡ്ബസ്റ്റിംഗും അത്തരത്തിലുള്ളവയും ക്ലൌഡ് മൈഗ്രേഷൻ ഹൈബ്രിഡ് ക്ലൌഡ് ഇന്റഗ്രേഷൻ ഗ്രീൻ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഊർജ്ജ മാനേജുമെന്റ് ഞാൻ ഇത് ധൈര്യത്തോടെ സൂക്ഷിച്ചു കാരണം ഇത് മാത്രമല്ല ഒരു ഗവേഷണ മേഖല ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് വിജയകരമാക്കുന്നത് ഒരു പ്രധാന വെല്ലുവിളിയും ആവശ്യകതയുമാണ് കോൺഫിഗറേഷനും കപ്പാസിറ്റി മാനേജുമെന്റും ഒരു സേവന ദാതാവിനെന്ന നിലയിൽ എന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ പുനക്രമീകരിക്കാം എങ്ങനെ കണക്കാക്കാം എന്റെ ശേഷി തരം കാര്യങ്ങൾ ക്ലൌഡ് വർക്ക്ലോഡ് പ്രൊഫൈലിംഗും വിന്യാസ നിയന്ത്രണവും വീണ്ടും മറ്റൊരു പ്രധാന വശം ഇവ കൃത്യമായി കാണാത്തവ ഒറ്റപ്പെടലല്ലെന്ന് നിങ്ങൾ കണ്ടാൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ശരിയാണ് തുടർന്ന് സേവന മാനേജുമെന്റിന്റെ ക്ലൌഡ് മീറ്ററിംഗ് നിരീക്ഷണവും ഓഡിറ്റിംഗും ഉണ്ട് അതിനാൽ ക്ലൌഡ് മാനേജുമെന്റ് പ്രവർത്തനത്തിന്റെയും നിരീക്ഷണത്തിന്റെയും വ്യത്യസ്ത വശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ക്ലൌഡ് സുരക്ഷ പ്രധാനമാണെന്ന് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തതുപോലെ ഉചിതമായ രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ആളുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകൾ അവരുടെ ഡാറ്റ ഈ ക്ലൌഡിലേക്ക് സംഭരിക്കാൻ ആത്മവിശ്വാസം നേടുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമല്ല നിരവധി നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഒരു ഡാറ്റ ചോർച്ചയുണ്ടെങ്കിൽ നിയമപരമായി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്ക് ഫെഡറൽ നിയമത്തിൽ കൈമാറേണ്ടതുണ്ടെങ്കിൽ ഭൌതികമായി ഡാറ്റ സംഭരിക്കപ്പെടാം ഒരുപക്ഷേ ഒരു പ്രത്യേക രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക സംസ്ഥാനത്തിന്റെ ഭൌതിക അതിർത്തിക്കുള്ളിൽ ഭൌതിക അതിർത്തിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഡാറ്റ സ്വകാര്യതക്ക് ആക്സസ്സ് നിയന്ത്രണ പ്രശ്നങ്ങൾ ഐഡന്റിറ്റി മാനേജുമെന്റ് സൈഡ് ചാനൽ ആക്രമണങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അത് പോലെ തന്നെ ജനപ്രിയമാവുകയാണ് ഇത് പ്രവർത്തനങ്ങളെ നേരിട്ട് നോക്കുന്നതായിരിക്കില്ല മറിച്ച് മറ്റ് ചില പ്രവർത്തനങ്ങൾ നോക്കുകയോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസിലാക്കുകയോ ചെയ്യുന്നതിലൂടെ എനിക്ക് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും നമ്മുടെ മുമ്പത്തെ പ്രഭാഷണത്തിൽ ക്ലൌഡ് സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ അവിടെ നാം കണ്ടത് ഒരു പേപ്പറിൽ ഒരു രൂപീകരണം സൃഷ്ടിക്കുമ്പോൾ അലോട്ട്മെന്റിന്റെ അടിസ്ഥാന തത്വശാസ്ത്രവും തരത്തിലുള്ള കാര്യങ്ങളും മനസിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് കഴിയുമെങ്കിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ മറ്റൊരു ക്ലയന്റിലെ ഐപി വിലാസ ബ്ലോക്കും കാര്യങ്ങളുടെ തരവും ഒരു പരിധിവരെ ഊഹിക്കാൻ എനിക്ക് കഴിയും ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമെങ്കിൽ സുരക്ഷാ പാളിച്ചക്ക് സാധ്യതയുണ്ട് അതിനാൽ ഇവ വ്യത്യസ്ത സുരക്ഷാ വശങ്ങളാണ് പ്രത്യേകിച്ചും ഇത് മിഷൻ നിർണായക കാര്യങ്ങളാണെങ്കിൽ ഓർഗനൈസേഷനോ വ്യക്തിക്കോ സുരക്ഷ ഉണ്ടായിരിക്കണം അതിനാൽ ഒരു സേവനമെന്ന നിലയിൽ സുരക്ഷ ആവിഷ്കരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഒരു സേവനമായി സുരക്ഷ നൽകാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ പ്രകടന സ്കേലബിളിറ്റിയും വിശ്വാസ്യതയുമാണ് രസകരവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു വശമാണ് അതിനാൽ ക്ലൌഡ് സിസ്റ്റങ്ങളുടെയും അവയുടെ ആപ്ലിക്കേഷനുകളുടെയും പ്രകടനം മറ്റൊരു പ്രത്യേക പ്രശ്നമാണ് പ്രകടനം എങ്ങനെ ഒരു പ്രത്യേക തലത്തിൽ പ്രകടനം നിലനിർത്താം ശരിയായ റിസോഴ്സ് മാനേജ്മെൻറ് ക്ലൌഡ് ലഭ്യതയും വിശ്വാസ്യതയും മൈക്രോസർവീസ് അധിഷ്ഠിത ആർക്കിടെക്ചർ പോലെയാണ് അതിനാൽ ഒരു സേവനം മറ്റൊരു മൈക്രോസർവീസായിരിക്കാം അതിനാൽ എന്റെ പ്രത്യേക ആർക്കിടെക്ചറിനു ഇത്തരത്തിലുള്ള മൈക്രോസർവീസുകളെ പിന്തുണയ്ക്കാൻ കഴിയുമോ മികച്ച പ്രകടന സ്കേലബിളിറ്റിയും വിശ്വാസ്യതയും കൈകാര്യം ചെയ്യുന്നതിന് എനിക്ക് മൈക്രോസർവീസ് അധിഷ്ഠിത ആർക്കിടെക്ചർ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമോ എന്നത് മികച്ച വിർച്വലൈസേഷൻ ടെക്നോളജീസ് സാങ്കേതികവിദ്യകൾ പോലെ സിസ്റ്റം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ ഈ ക്ലൌഡ് നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും ഹാർഡ്വെയർ എടുക്കുന്നതിനുപകരം അത് പിന്തുണയ്ക്കുന്ന ഹാർഡ്വെയർ തന്നെ തിരഞ്ഞെടുക്കണം അതിനാൽ ഇതും ഒരു പ്രധാന വശമാണ് അതിൽ പ്രവർത്തിക്കുന്നതിന് വാസ്തുവിദ്യയുടെയും വികസനത്തിൻറെയും കാര്യങ്ങളുടെയും ആന്തരിക പ്രവർത്തനത്തെക്കുറിച്ചോ കൂടുതൽ ആന്തരിക നടപ്പാക്കൽ വിശദാംശങ്ങളെക്കുറിച്ചോ നിങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട് ക്ലൌഡിൽ ഡാറ്റ അനലിറ്റിക്സ് മുഖ്യം ആണ് ബിസിനസ്സ് ബാങ്കിംഗ് മെട്രോളജിക്കൽ ഡാറ്റ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡാറ്റ എന്നിങ്ങനെയുള്ള വലിയ അളവിലുള്ള ഡാറ്റയും എല്ലാ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് ധാരാളമായി ഉണ്ട് ഈ അനലിറ്റിക്സ് എല്ലായിടത്തും ഉണ്ട് ക്ലൌഡിൽ ആണെങ്കിലും നമ്മൾ കണ്ടത് ഒരു വലിയ അളവിലുള്ള ഡാറ്റ കൈവശം വയ്ക്കാൻ കഴിയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് കൂടാതെ ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനും മാത്രമല്ല വ്യത്യസ്ത ഡാറ്റാ ഉറവിടങ്ങൾക്കിടയിൽ പരസ്പരപ്രവർത്തനം ഉറപ്പാക്കാൻ ഇത് ശ്രമിക്കുന്നു അതിനാൽ ഗവേഷണത്തിലെ വളരെ ചർച്ചാവിഷയങ്ങളിൽ ഒന്നാണ് ക്ലൌഡിലെ ഈ ഡാറ്റ അനലിറ്റിക്സ് ശാസ്ത്രീയ കമ്പ്യൂട്ടിംഗ് ഡാറ്റ മാനേജുമെന്റ് എന്നിങ്ങനെ അനലിറ്റിക് വികസിപ്പിക്കുന്ന വ്യത്യസ്ത അനലിറ്റിക്സ് ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിനാൽ ഡാറ്റ മാനേജുമെന്റും കമ്പ്യൂട്ടിംഗും വേറിട്ടതാണെന്നല്ല പക്ഷേ കമ്പ്യൂട്ടിംഗ് വശം വലിയ ഡാറ്റാ മാനേജുമെന്റ് അനലിറ്റിക്സ് സ്റ്റോറേജ് ഡാറ്റ അനലിറ്റിക്സ് ക്ലൌഡുകൾ എന്നിവയുമായി എന്റെ മാനേജുമെന്റ് കൂടുതൽ കൈകോർക്കുന്നുണ്ടോ എന്ന് അതിനാൽ ഇവ വലിയ രീതിയിൽ വരുന്ന ചില കാര്യങ്ങളാണ് കൂടാതെ ഈ മേഖലകളിൽ പ്രവർത്തിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് ക്ലൌഡിലെ സേവന മാനേജുമെന്റാണ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ മറ്റൊരു വശം അവ സേവന കണ്ടെത്തൽ സേവന കോമ്പോസിഷൻ സേവനങ്ങളുടെ ഗുണനിലവാരം ക്യുഓഎസ് മാനേജ്മെന്റ് എന്നിവ പോലെയാണ് അതിനാൽ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് സുരക്ഷയും സ്വകാര്യത സേവനങ്ങളും ഈ സേവനങ്ങളുടെ സുരക്ഷയും സ്വകാര്യതയും വ്യത്യസ്ത സേവനങ്ങൾ ഉണ്ട് ഈ സേവനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചോ സ്വകാര്യതകളെക്കുറിച്ചോ സെമാന്റിക് സേവനങ്ങളുണ്ട് ഒരു വ്യത്യസ്ത ഡൊമെയ്നിന് വ്യത്യസ്ത തരം ചലനാത്മകതകളുണ്ടാകുമ്പോൾ പ്രവചനങ്ങളും കാര്യങ്ങളുടെ തരവും ഞാൻ നോക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങളിലേക്ക് വ്യത്യസ്ത തരം സെമാന്റിക്സ് ഉണ്ടാകും അതിനാൽ കാര്യങ്ങളിൽ അന്തർലീനമായ അർത്ഥമുണ്ട് ആ സെമാന്റിക്സിനെ എങ്ങനെ സംയോജിപ്പിച്ച് സെമാന്റിക് സേവനങ്ങളും സേവനാധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വശങ്ങളും ക്ലൌഡിൽ ഇടാം അതിനാൽ ഇവ ജനപ്രിയമാകുന്ന മറ്റ് ചില വശങ്ങളാണ് ഒടുവിൽ നിരവധി സാങ്കേതികവിദ്യകൾ വരുന്നുണ്ട് കൂടാതെ ക്ലൌഡ്ഡും ആ സാങ്കേതികവിദ്യകളും എങ്ങനെ പ്രവർത്തിക്കുന്നു ഒന്ന് ഫോഗ് ഐഒടി ക്ലൌഡ് നമ്മൾ ഡോക്കർ സാങ്കേതികവിദ്യകൾ പരിശോധിച്ചതുപോലെയും കാര്യങ്ങൾ ഉണ്ട് അതിനാൽ മികച്ച സേവനങ്ങൾ നൽകുന്നതിന് ഈ സാങ്കേതികവിദ്യകളും ക്ലൌഡ് കമ്പ്യൂട്ടിംഗും എങ്ങനെ കൈകോർത്തുപോകും അതിനാൽ ഭാവിയിലെ ഒരു ലക്ഷ്യം ആയിട്ടോ അല്ലെങ്കിൽ ഗവേഷണത്തിലെ സമീപകാല പ്രവണതയെക്കുറിച്ചോ ഞങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്ന ചില വശങ്ങളാണിവ അതിനാൽ വരാനിരിക്കുന്ന വ്യത്യസ്ത ഫീൽഡുകൾ എന്തൊക്കെയാണെന്നോ ഗവേഷണത്തിന്റെ ഇപ്പോഴത്തെ ദിശ എന്താണെന്നോ കണ്ടെത്താനുള്ള ഒരു നല്ല സ്ഥലം ടോപ്പ് ലെവൽ ചാനൽ പൊതു ഇടപാട് നോക്കുക ഏതുതരം പ്രത്യേക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളുടെ വ്യാപ്തി ഉണ്ടെന്നും നോക്കുക എന്നിവയാണ് ഉയർന്ന തലത്തിലുള്ള സമ്മേളനങ്ങൾ വിഷയങ്ങളുടെ വ്യാപ്തി എന്താണ് ഇവയൊക്കെ നോക്കണം അതിനാൽ ഇതോടെ ഞാൻ ഈ കോഴ്സ് അവസാനിപ്പിക്കാം നിങ്ങൾ ഈ പ്രത്യേക കോഴ്സ് ആസ്വദിച്ചുവെന്നും ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഈ പ്രത്യേക വശത്ത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതൽ ഉന്നത പഠനങ്ങളിൽ നിങ്ങളെ സഹായിക്കും എന്നതാണ് ഈ വശങ്ങളിൽ ഈ മേഖലയിലെ ഗവേഷണങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും അതിനാൽ നിരവധി ക്ലൌഡ് സിമുലേറ്ററുകൾ ലഭ്യമാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണിത് അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ അടിസ്ഥാന സൌകര്യങ്ങൾ നേടുന്നതിനോ അല്ലെങ്കിൽ പരീക്ഷണത്തിന് ഉയർന്ന ക്ലൌഡ് നേടുന്നതിനോ എല്ലായ്പ്പോഴും സാധ്യമല്ലായിരിക്കാം അതിനാൽ നമുക്ക് കഴിയുന്ന സിമുലേറ്ററുകൾ ഉണ്ട് കാര്യങ്ങൾ ഉണ്ടോ എന്ന് കാണാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾ അവയിൽ പരീക്ഷിക്കുന്നതെന്തും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതെന്തും കാര്യങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയും അതിനാൽ ഇവ ഉപയോഗിച്ച് ഞാൻ ഈ കോഴ്സ് അവസാനിപ്പിക്കുന്നു ഈ കോഴ്സിൽ പങ്കെടുത്തതിന് വളരെ നന്ദി നന്ദി